നമ്മൾ സംസാരിക്കേണ്ട ചർച്ച ചെയ്യേണ്ട ഒരു വശം കൂടിയുണ്ട് അത് ഒന്നിലധികം ഔട്ട്പുട്ടുകളിൽ ആണ് ഒന്നിലധികം ഔട്ട്പുട്ടുകൾ എങ്ങനെ കൈകാര്യം ചെയ്യാം DC DC കൺവെർട്ടറിൽ നിന്ന് പുറത്തുവരുന്ന ഒരൊറ്റ ഔട്ട്പുട്ട് വോൾട്ടേജിനെക്കുറിച്ച് ഇതുവരെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പ്രായോഗികമായി നിങ്ങൾ പല പവർ സപ്ലൈകളും കാണും മിക്ക പവർ സപ്ലൈകൾക്കും 5 വോൾട്ട് ഔട്ട്പുട്ട് 3 പോയിന്റ് 3 വോൾട്ട് ഔട്ട്പുട്ട് 15 വോൾട്ട് ഔട്ട്പുട്ട് 15 വോൾട്ട് ഔട്ട്പുട്ട് 12 അങ്ങനെ അങ്ങനെ പലതും അതിനാൽ നിങ്ങളുടെ പക്കലുള്ള മിക്ക വാണിജ്യ പവർ സപ്ലൈകൾക്കും തീർച്ചയായും ഒന്നിലധികം ഔട്ട്പുട്ടുകൾ ഉണ്ടായിരിക്കും എന്നിരുന്നാലും നമ്മൾ പഠിച്ച DC DC കൺവെർട്ടർ നോക്കിയാൽ കണ്ട്രോൾ ഇൻപുട്ട് സ്വിച്ചുകളിലേക്കുള്ള ഡ്യൂട്ടി സൈക്കിൾ മാത്രമാണ് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ ഒരു ഡ്യൂട്ടി സൈക്കിൾ മാത്രമേ ലഭ്യമാകൂ ഡ്യൂട്ടി സൈക്കിളായ ഒരു കൺട്രോൾ ഇൻപുട്ട് ഉപയോഗിച്ച് അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഔട്ട്പുട്ട് മാത്രമേ നിയന്ത്രിക്കാനാകൂ ബാക്കിയുള്ള മറ്റ് ഒന്നിലധികം ഔട്ട്പുട്ടുകളുമായി എന്തുചെയ്യണം അതിൽ നിന്ന് എങ്ങനെ നിയന്ത്രണം കൊണ്ടുവരും ഇപ്പോൾ അതൊരു പ്രശ്നമാണ് അതിനാൽ ഈ പ്രത്യേക വീഡിയോ ക്യാപ്സ്യൂളിലെ ചർച്ചയ്ക്കുള്ള ഫോക്കസ് ഇതാണ് ഞാൻ സൂചിപ്പിച്ച ഈ പ്രത്യേക പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുന്ന രണ്ട് രീതികളും മൾട്ടി ഔട്ട്പുട്ട് കൺവെർട്ടറുകളുടെ മറ്റ് ഔട്ട്പുട്ടുകൾ നിങ്ങൾക്ക് എങ്ങനെ നിയന്ത്രിക്കാമെന്നും ചർച്ച ചെയ്യും മൾട്ടി ഔട്ട്പുട്ട് കൺവെർട്ടറുകൾ നമുക്ക് ചർച്ച ചെയ്യാം അവ എങ്ങനെ കാണപ്പെടുന്നു ഉദാഹരണത്തിന് ഫ്ലൈബാക്ക് കൺവെർട്ടർ എടുക്കുക ഫ്ലൈബാക്ക് കൺവെർട്ടർ ഞാൻ സ്കീമാറ്റിക് വരയ്ക്കട്ടെ ഇതിന് പ്രൈമറി വൈൻഡിംഗ് ഉണ്ട് ഞാൻ ഒരു സ്വിച്ച് സ്ഥാപിക്കുന്നു ഈ ഗ്രൌണ്ടിൽ ഇതിന് ദ്വിതീയ വൈൻഡിംഗ് ഉണ്ട് ഇപ്പോൾ ഒരു ഇൻഡക്ടർ പോലെ പ്രവർത്തിക്കുന്ന ഈ ട്രാൻസ്ഫോർമർ ഡോട്ട് പോളാരിറ്റികൾ ഇതുപോലെ ഇടാം ഫ്ലൈബാക്ക് കൺവെർട്ടറിനെക്കുറിച്ചുള്ള മുൻ ചർച്ച ഇപ്പോൾ ഓർക്കുക ഇതാണ് ഫ്ലൈബാക്ക് കൺവെർട്ടർ ഇപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് Vo നിയന്ത്രിക്കുന്നത് എങ്ങനെ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്ത ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ ടോപ്പോളജി വഴി ഈ ഔട്ട്പുട്ട് Vo നിയന്ത്രിക്കാൻ കഴിയും മാത്രമല്ല ഐസൊലേറ്റഡ് കൺവെർട്ടെഴ്സിന് പോലും ഇത് ബാധകമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നിറം മാറ്റാൻ എന്നെ അനുവദിക്കുക എന്നതാണ് നമുക്ക് Vo തിരിച്ചറിയാനും അത് ഒരു കൺട്രോളർക്ക് നൽകാനും കഴിയും ഞാൻ കൺട്രോളർ വിശദമായി ഇടാൻ പോകുന്നില്ല ഇത് Vo കർവ് ആണെന്ന് ഞാൻ പറയാൻ പോകുന്നു ഇതാണ് Vo ഫീഡ്ബാക്ക് ഇത് ഒരു കൺട്രോളറിലേക്ക് പോകുന്നു ഇതൊരു PI ആണ് ഇതാണ് PWM അത് നിയന്ത്രിക്കുന്നു ഇതാണ് യഥാർത്ഥത്തിൽ ഫീഡ്ബാക്ക് വോൾട്ടേജ് ഔട്ട്പുട്ട് വശത്തിനും കൺട്രോൾ വശത്തിനും ഇടയിൽ ഐസൊലേഷൻ സൃഷ്ടിക്കാൻ നമ്മൾ മികച്ച ലൈനുകളിലേക്ക് പോയി എന്ന് ഇപ്പോൾ ഓർക്കുക നിങ്ങൾ ഒരു കണ്ടക്ടർ അളക്കാനും മനസ്സിലാക്കാനും ഉപയോഗിക്കുന്നു അത് കൺട്രോൾ സൈഡിലേക്ക് തിരികെ നൽകുമ്പോൾ ഐസൊലേഷൻ നഷ്ടപ്പെടും അതിനാൽ സർക്യൂട്ടിന്റെ ഈ ഭാഗത്തിനും എല്ലാ താഴത്തെ ഭാഗത്തിനും സർക്യൂട്ടിന്റെ ഈ ഭാഗത്തിനും ഇടയിൽ ഐസൊലേഷൻ നിലനിർത്തുന്നതിന് സെൻസിംഗ് സമയത്ത് പോലും ഇവിടെ ഒരു ഐസൊലേഷൻ തടസ്സം ഉണ്ടാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു സാധാരണയായി ഇത് ഒപ്റ്റോ കപ്ലറുകൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ സർക്യൂട്ടിന്റെ ഈ ഭാഗം മായ്ക്കട്ടെ ഈ ഘട്ടത്തിൽ ഒരു ഒപ്റ്റോകപ്ലർ അവതരിപ്പിക്കാം ഇപ്പോൾ എന്താണ് ഒപ്റ്റോകപ്ലർ ഡയോഡിലൂടെ കുറച്ച് കറന്റ് ഒഴുകാൻ നിങ്ങൾ അനുവദിച്ചേക്കാം ഒരുപക്ഷേ എനിക്ക് ഒരു സെനർ ഉപയോഗിക്കാം ഞാൻ അതിനെ ഈ ഗ്രൌണ്ടുമായി ബന്ധിപ്പിക്കാൻ പോകുന്നില്ല എനിക്ക് മറ്റൊരു സർക്യൂട്ട് ഗ്രൌണ്ട് ഉണ്ടാകാൻ പോകുന്നു അതിനാൽ ഈ ഔട്ട്പുട്ടിൽ നിന്ന് ഒരു കറന്റ് ഫ്ലോ ഉണ്ടെന്ന് ഇപ്പോൾ ദൃശ്യമാകുന്നു അത് ഈ ഡയോഡിലൂടെ കടന്നുപോകുന്നു വീണ്ടും സെനറിലൂടെയും അതിനാൽ ഇത് ഈ രീതിയിൽ പ്രചരിക്കുന്നു അപ്പോൾ ശരിയായ മൂല്യം എന്താണ് അതിനാൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാതിരിക്കാൻ ഞാൻ ഇവിടെ ഒരു റെസിസ്റ്റൻസ് അവതരിപ്പിക്കും ഞാൻ ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് വയ്ക്കും ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഒഴുകുന്ന കറന്റ് നോക്കുകയാണെങ്കിൽ അത് Vo Vz ന് തുല്യമായിരിക്കും ഇത് Vz മൈനസ് ഏതെങ്കിലും ഡയോഡ് ഡ്രോപ്പ് ആണെന്ന് നിങ്ങൾ കാണുന്നു നിങ്ങൾക്ക് ഡയോഡ് ഡ്രോപ്പ് മൈനസ് Vd ഉൾപ്പെടുത്തണമെങ്കിൽ അതിനെ R കൊണ്ട് ഹരിക്കുന്നു ഇവിടെ R എന്നത് സീരീസ് പാതയിലെ റെസിസ്റ്റൻസ് ആണ് ഇപ്പോൾ ഈ ഡയോഡിലൂടെ ഒഴുകുന്ന കറന്റ് ഇതാണ് ഇപ്പോൾ ഈ ഡയോഡ് ഒപ്റ്റോകപ്ലറിന്റെ ഭാഗമാണെന്ന് കരുതുക അതിനർത്ഥം വയറിലൂടെ ഒരു കറന്റ് ഫ്ലോ ഉള്ളപ്പോൾ ഒരു ലൈറ്റ് ഔട്ട്പുട്ട് ഉണ്ടാകും ഇപ്പോൾ ഈ ലൈറ്റ് ഔട്ട്പുട്ട് ഒരു കൺട്രോൾ സ്വിച്ച് വയറുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ ഈ കൺട്രോൾ സ്വിച്ച് ഞാൻ ഇത് ഈ രീതിയിൽ സ്ഥാപിച്ചുവെന്ന് പറയാം കൺട്രോൾ സ്വിച്ചിന് സർക്യൂട്ടിന്റെ നിയന്ത്രണ ഭാഗങ്ങൾക്ക് സമാനമായ ഗ്രൌണ്ട് ഉണ്ടെന്ന് നിങ്ങൾ കാണുന്നു ഇവയ്ക്കെല്ലാം ഒരേ ഗ്രൌണ്ടാണുള്ളത് ഇപ്പോൾ ഒപ്റ്റോകപ്ലറിന്റെ BJT ഭാഗവും ഇതേ ഗ്രൌണ്ടിലാണ് അതിനാൽ സംഭവിക്കുന്നത് ഫലത്തിൽ കറന്റ് ഇതിലൂടെ ഒഴുകുമ്പോൾ ഔട്ട്പുട്ടിൽ ഒരു പ്രകാശമുണ്ട് അത് യഥാർത്ഥത്തിൽ ഈ BJT യുടെ ബെയിസ് ഡ്രൈവ് പോലെ പ്രവർത്തിക്കുകയും അതിനെ അതിന്റെ ലീനിയർ റീജിയനിലേക്കു കൊണ്ടുവരാനോ അല്ലെങ്കിൽ ബയസ് ചെയ്യാനോ ശ്രമിക്കുന്നു കറന്റ് കൂടുതലാണെങ്കിൽ ബയസ്സും കൂടുതൽ ആയിരിക്കും ട്രാന്സിസ്റ്ററിൽ കൂടെയുള്ള Vce ഡ്രോപ്പ് കുറവും ആയിരിക്കും കറന്റ് കുറവാണെങ്കിൽ ബെയിസ് ബയസ്സും കുറവായിരിക്കും അത് കട്ട് ഓഫിന് അടുത്തായിരിക്കും അപ്പോൾ ട്രാന്സിസ്റ്ററിലൂടെയുള്ള Vce ഡ്രോപ്പ് കൂടുതലും ആണ് ഇവിടെ വോൾട്ടേജ് മാറിക്കൊണ്ടിരിക്കുന്നു അതാണ് നമ്മൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നതും അത് നമ്മൾ ചെയ്തു ഇവിടെ കറന്റ് മാറുകയും ഇതിലെ വോൾട്ടേജ് ഡ്രോപ്പും അതിനനുസരിച്ച് മാറുകയും ചെയ്യുന്നു ഔട്ട്പുട്ട് വോൾട്ടേജിലെ മാറ്റത്തെക്കുറിച്ചുള്ള ഒരു അളവുകോലായി ഈ ഒപ്റ്റോകപ്ലർ ഔട്ട്പുട്ടിന്റെ വോൾട്ടേജ് ഡ്രോപ്പ് Vce ഉപയോഗിക്കുക ഇതാണ് നമ്മൾ അനുയോജ്യമെന്ന് പ്രഖ്യാപിച്ചത് മൊത്തത്തിലുള്ള ക്ലോസ് ലൂപ്പ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെന്ന് കാണാൻ ഉചിതമായ രീതിയിൽ നിങ്ങൾക്ക് വോൾട്ടേജും കളക്ടർ പോയിന്റും അല്ലെങ്കിൽ എമിറ്റർ പോയിന്റും ടാപ്പ് ചെയ്യാം അത് പ്രധാനമാണ് അതിനാൽ ഇപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ഐസൊലേറ്റഡ് രീതിയിൽ മനസ്സിലാക്കാനുള്ള ഒരു മാർഗമുണ്ട് ഇപ്പോൾ ഈ ഭാഗം ഒപ്റ്റോകപ്ലർ ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് ഒപ്റ്റോകപ്ലർ പ്രവർത്തനം സൂചിപ്പിച്ചു ഈ പോയിന്റിലേക്ക് ഞാൻ ഇവിടെ ഒരു രേഖ വരച്ചിട്ടുണ്ട് എന്നാൽ മറ്റ് ഭാഗങ്ങളും മറ്റ് സർക്യൂട്ടുകളും ഇവിടെ വരും കൂടാതെ ഫിൽട്ടറുകളും അറ്റൻവേറ്ററുകളും അല്ലെങ്കിൽ ഒരുപക്ഷേ ആംപ്ലിഫയറുകളും അത് എന്തായാലും ചിത്രത്തിൽ വരും ഇത് ചെയ്യും ഇപ്പോൾ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന അടുത്ത പ്രധാന കാര്യം ഒരു കൺട്രോൾ ടോപ്പോളജി സർക്യൂട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു സെറ്റ് സ്വിച്ചുകൾ നിയന്ത്രിക്കാം അല്ലെങ്കിൽ പുഷ് പുൾ ഫുൾ ബ്രിഡ്ജ് ഹാഫ് ബ്രിഡ്ജ് സർക്യൂട്ടുകളുടെ കാര്യത്തിൽ മറ്റേ സ്വിച്ച് നിങ്ങൾക്ക് നിയന്ത്രിക്കാം മറ്റൊരു കൂട്ടം സ്വിച്ചും കാരണം അതേ ഡ്യൂട്ടി സൈക്കിൾ മറുവശത്തും പ്രയോഗിക്കാൻ കഴിയും എന്ന അർത്ഥത്തിൽ ഡ്യൂട്ടി സൈക്കിൾ ബന്ധിപ്പിച്ചിരിക്കുന്നു ഒരേയൊരു കാര്യം അവ മ്യൂച്വലി എക്സ്ക്ളൂസീവ് ആണ് എന്നതാണ് ഈ പ്രത്യേക സ്വിച്ച് ഓണായിരിക്കുമ്പോൾ മറ്റേ സ്വിച്ച് ഓഫായിരിക്കും മറ്റേ സ്വിച്ച് ഓണായിരിക്കുമ്പോൾ ഈ പ്രത്യേക സ്വിച്ച് അതായതു ആദ്യത്തെ സ്വിച്ച് ഓഫ് ആകുമായിരുന്നു ഇൻപുട്ട് തിരിച്ചുള്ള നിയന്ത്രണത്തിൽ ഇപ്പോഴും ഒരു കൺട്രോൾ ഇൻപുട്ട് മാത്രമേയുള്ളൂ അത് ഒരു ഔട്ട്പുട്ട് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സിംഗിൾ ഡ്യൂട്ടി സൈക്കിൾ നിയന്ത്രണമാണ് അതിനാൽ മൾട്ടി ഔട്ട്പുട്ട് ഫ്ലൈബാക്ക് കൺവെർട്ടറിന്റെ ഒരു ഔട്ട്പുട്ട് ഈ നിയന്ത്രിത രീതിയിൽ മറ്റുള്ളവയ്ക്ക് മുകളിലായി പരിപാലിക്കാൻ കഴിയും അതിനാൽ ഇപ്പോൾ നമുക്ക് ആ പ്രത്യേക പോയിന്റ് നോക്കാം ഇപ്പോൾ എനിക്ക് സമാനമായ രണ്ട് വൈൻഡിംഗുകൾ കൂടി ഉണ്ടെന്ന് കരുതുക എല്ലാം ഒരേ കോറിൽ ചുറ്റിയിട്ടുണ്ട് ഇത് Vo1 ഉം ഇത് Vo2 ഉം ഉദാഹരണത്തിന് എനിക്ക് ഒന്ന് കൂടി ഉണ്ട് അത് Vo3 ആണ് ഇവയെല്ലാം ഒരേ വൈൻഡിംഗിലാണ് അതിനർത്ഥം അവയെല്ലാം കപ്പിൾഡ് ആണെന്നും ഈ വരികളാൽ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നുമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഡോട്ട് പോളാരിറ്റികളും ഇടാം അതിനാൽ രണ്ടിൽ ഒന്ന് മാത്രമേ ഫീഡ്ബാക്കിനായി തിരികെ നൽകിയിട്ടുള്ളൂ എന്ന് നമുക്ക് പറയാം ഈ രീതിയിൽ ഐസൊലേഷൻ സെൻസിംഗ് ബൌണ്ടറി ഓപ്റ്റോകപ്ലർ ബൌണ്ടറി സൂചിപ്പിക്കാം അതിനാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് മനസ്സിലാക്കാനും അത് നിയന്ത്രണത്തിലേക്ക് തിരികെ അയയ്ക്കാനും നിങ്ങൾ ഒപ്ടോകപ്ലറുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാം Vo3 നിയന്ത്രിക്കപ്പെടുന്നു എന്നാൽ Vo1 Vo2 എന്നിവ നിയന്ത്രിക്കപ്പെടുന്നില്ല നമ്മൾ എന്ത് ചെയ്യും അതിനാൽ ആളുകൾ ഉപയോഗിക്കുന്ന വളരെ ജനപ്രിയമായ ഒരു രീതി ലീനിയർ റെഗുലേറ്ററുകൾ ഉപയോഗിക്കുക എന്നതാണ് സാധാരണയായി ഏറ്റവും ഉയർന്ന പവർ ഔട്ട്പുട്ട് പരമാവധി പവർ കൈകാര്യം ചെയ്യുമെന്ന് കരുതുന്ന ഔട്ട്പുട്ട് ക്ലോസ്ഡ് ലൂപ്പിലൂടെയാണ് നൽകുന്നത് മറ്റ് കുറഞ്ഞ പവർ കൈകാര്യം ചെയ്യുന്നത് ലീനിയർ റെഗുലേറ്ററുകൾ എന്ന് വിളിക്കുന്ന ചെറിയ മൂന്ന് ടെർമിനൽ റെഗുലേറ്ററുകളാണ് അതിനാൽ ഇവയ്ക്ക് ധാരാളം ലീനിയർ റെഗുലേറ്ററുകൾ ഉണ്ട് 78xx സീരീസിനെക്കുറിച്ച് നിങ്ങൾ ഇതിനകം കേട്ടിരിക്കാം അതായത് 7812 എന്നാൽ 12 വോൾട്ട് റെഗുലേറ്ററുകൾ 7815 എന്നാൽ 15 വോൾട്ട് റെഗുലേറ്ററുകൾ 7808 എന്നത് 8 വോൾട്ട് റെഗുലേറ്ററുകൾ എന്നിങ്ങനെ പോകുന്നു അത് അത്തരത്തിലുള്ള ഒരു സീരീസ് ആണ് എന്നാൽ നിരവധി മൂന്ന് ടെർമിനൽ റെഗുലേറ്ററുകൾ ഉണ്ട് ഇപ്പോൾ നമുക്ക് ലോ ഡ്രോപ്പ് റെഗുലേറ്ററുകളുടെ നോഡുകളും ഉണ്ട് അടിസ്ഥാനപരമായി അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഒരു ലോഡ് ഉണ്ട് ഇതാണ് നിങ്ങളുടെ Ro ലോഡ് ഇനി ഇവിടെ കണക്റ്റ് ചെയ്തിട്ടില്ല ഇതിലുടനീളമുള്ള ഡ്രോപ്പ് എന്താണ് അതാണ് വി ഡ്രോപ്പ് ഇപ്പോൾ V ഡ്രോപ്പ് ഈ dc dc കൺവെർട്ടർ ഔട്ട്പുട്ട് വഴി നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ട് അതിനാൽ ഈ V ഡ്രോപ്പ് പരിപാലിക്കുന്നതിന് ആ പ്രത്യേക വിതരണത്തിന്റെ വൈൻഡിംഗ് മെച്ചപ്പെടുത്തണം അതിനാൽ ലോ ഡ്രോപ്പ് റെഗുലേറ്ററിൽ ഈ V ഡ്രോപ്പ് മൂല്യം വളരെ ചെറുതാണ് അതിനാൽ സാധാരണയായി V ഡ്രോപ്പിന്റെ ഓർഡർ എന്നത് അഥവാ നോർമൽ റെഗുലേറ്ററുകളിൽ ഇതിന്റെ ഓർഡർ 3 വോൾട്സ് ആയിരിക്കു റെഗുലേറ്ററിന്റെ മിനിമം വോൾടേജ് ഡ്രോപ്പ് എന്നത് 3 വോൾട്സ് ആയിരിക്കും ഇത് അടിസ്ഥാനപരമായി അർത്ഥമാക്കുന്നത് ഇവിടെ നിങ്ങളുടെ ഔട്ട്പുട്ട് സ്പെക് Vo1 ഇവിടെ DC DC കൺവെർട്ടറിന്റെ ഔട്ട്പുട്ടിലെ സ്പെക് റെഗുലേറ്ററിന്റെ Vo1 ഉം V ഡ്രോപ്പും കൂട്ടുന്നതായിരിക്കും ഇത് 3 വോൾട്ട് ആണെങ്കിൽ 1 പ്ലസ് 3 വോൾട്ട് ഉണ്ടാകണമെന്നില്ല മാത്രമല്ല പവർ സ്പെസിഫിക്കേഷൻ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് കാരണം വൈൻഡിംഗുകൾക്ക് ആ അധിക പവർ വഹിക്കേണ്ടിവരും അതിനാൽ നിങ്ങൾക്ക് Ro യിലൂടെ ഒഴുകുന്ന ഒരു ലോഡ് കറന്റ് Io മാക്സ് ഉണ്ട് ഇപ്പോൾ V ഡ്രോപ്പിലൂടെയുള്ള Io ഈ പ്രത്യേക വൈൻഡിംഗ് കൈകാര്യം ചെയ്യേണ്ട ശക്തി കൂടിയാണ് അതിനാൽ IoRo കൂടാതെ Io യുടെ അധിക തുക കൈകാര്യം ചെയ്യും ക്ഷമിക്കണം ഇത് I2oRo IoV ഡ്രോപ്പ് കൈകാര്യം ചെയ്യും ഇപ്പോൾ ഈ V ഡ്രോപ്പ് പരിപാലിക്കാൻ DC DC കൺവെർട്ടറിന് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന അധിക പവർ ഇതാണ് കറന്റിനെ വഹിക്കാനുള്ള ശേഷിയും കോറിന്റെ വലുപ്പവും ഇതുമൂലം ചെറുതായി വർദ്ധിച്ചേക്കാം ഒരാൾ ലോ ഡ്രോപ്പ് വോൾട്ട് റെഗുലേറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ V ഡ്രോപ്പ് 0 5 വോൾട്ട് വരെ കുറവായിരിക്കും നിങ്ങൾക്ക് വളരെ കുറച്ച് ഡിസ്സിപ്പേഷൻ ഉണ്ടാകുകയും അവിടെ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്യുകയും ചെയ്യും ട്രാൻസ്ഫോർമർ കോറിന്റെ വലുപ്പത്തിൽ നിങ്ങൾക്ക് കൂടുതൽ നഷ്ടമാകില്ല അതുപോലെ തന്നെ മറ്റ് വൈൻഡിംഗിനും നിങ്ങൾക്ക് മൂന്ന് ടെർമിനൽ റെഗുലേറ്റർ ഇടുകയും അതിനനുസരിച്ച് DC Dc കൺവെർട്ടറിന്റെ റെഗുലേറ്ററിന്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ആവശ്യകത ക്രമീകരിക്കുകയും ചെയ്യാം റെഗുലേറ്റർ ഉപയോഗിച്ച് മാറുന്നത് Vo റിക്യുർമെന്റും പവർ റിക്യുർമെന്റും മാത്രമാണ് ഔട്ട്പുട്ട് റെഗുലേറ്ററിന്റെ പവർ റിക്യുർമെന്റും റെഗുലേറ്റർ ഡിസൈനിന്റെ മറ്റ് ഭാഗങ്ങളും അതേപടി തുടരും മൾട്ടി ഔട്ട്പുട്ട് റെഗുലേറ്ററുകളുടെ രൂപകൽപ്പന ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പോഴും രീതിയാണിത് മൾട്ടി ഔട്ട്പുട്ട് കൺവെർട്ടറുകളുടെ ഈ നിയന്ത്രണം കൈകാര്യം ചെയ്യുന്നതിനുള്ള മറ്റൊരു രീതി ഞാൻ ഇപ്പോൾ വിശദീകരിക്കും ഞാൻ എന്നാൽ ഇപ്പോൾ ഫ്ളൈബാക്കിന്റെ അതെ ഉദാഹരണം എടുക്കാം ഈ തത്വങ്ങൾ ഐസൊലേറ്റഡ് കൺവെർട്ടറുകളിൽ ഉപയോഗിക്കാം എന്നാൽ അവ ഫ്ളൈബാക്ക് ആകണമെന്ന് നിർബന്ധം ഇല്ല അത് ഫോർവേഡ് കൺവെർട്ടർ ആകാം പുഷ് പുൾ കൺവെർട്ടർ ആകാം ഹാഫ് ബ്രിഡ്ജ് കൺവെർട്ടർ ആകാം അല്ലെങ്കിൽ ഫുൾ ബ്രിഡ്ജ് കൺവെർട്ടർ ആകാം അതിനാൽ ഇപ്പോൾ നമുക്ക് ഈ രണ്ട് ഔട്ട്പുട്ടുകൾ ഉണ്ടെന്ന് പറയാം സാമാന്യത നഷ്ടപ്പെടാതെ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഏറ്റവും താഴെയുള്ളത് പറയാം ഒപ്റ്റോ ഐസൊലേഷൻ ബാരിയറിലൂടെ ഞാൻ അത് തിരികെ നൽകും ട്രാൻസ്ഫോർമർ ഉപയോഗിച്ച് നമ്മൾ നേടിയ ഗാൽവാനിക് ഐസൊലേഷനെ ശല്യപ്പെടുത്തുന്നില്ല ഇനി ഇതുപയോഗിച്ച് നമുക്ക് ഇതിന്റെ Vo നിയന്ത്രിക്കാം അതിനാൽ ഇത് നിയന്ത്രിക്കപ്പെടുന്നു എന്നാൽ ഈ വോൾട്ടേജ് എങ്ങനെ നിയന്ത്രിക്കാം അതിനാൽ ചർച്ചയിൽ പൊതുവായി ഞങ്ങൾക്ക് മുമ്പത്തെ രീതി ഉണ്ടായിരുന്നു നമ്മൾ മൂന്ന് ടെർമിനൽ റെഗുലേറ്ററുകളിൽ ഒരു ലീനിയർ റെഗുലേറ്റർ ഉപയോഗിച്ചിരുന്നു ലീനിയർ റെഗുലേറ്ററിന്റെ പ്രശ്നം അത് ഡിസിപെറ്റീവ് ചെയ്യും എന്നതാണ് അതിനാൽ കാര്യക്ഷമത കുറയുകയും വലുപ്പം കൂടുകയും ചെയ്യുന്നു ഇവിടെ ഒരു നോൺ ഐസൊലേറ്റഡ് കൺവെർട്ടർ ഉപയോഗിക്കാൻ ഞങ്ങൾ ശ്രമിക്കും എന്നതാണ് പ്ലാൻ അതിനാൽ ഇത് കൺവെർട്ടറിലേക്കുള്ള ഒരു ഇൻപുട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ബക്ക് ഓപ്പറേഷൻ വേണമെന്ന് നമുക്ക് പറയാം എനിക്ക് ഇതുപോലുള്ള ഒരു ബക്ക് കൺവെർട്ടർ ഉപയോഗിക്കാം കൂടാതെ ഒരു ഇൻഡക്ടറും കപ്പാസിറ്റൻസും ഇതുപോലെയുള്ള ഒരു സർക്യൂട്ടും ഉണ്ടായിരിക്കുക റിട്ടേൺ റെയിലായ നെഗറ്റീവ് റെയിലിലേക്ക് നിങ്ങൾ ഈ ഉപകരണം അമർത്തുകയാണെങ്കിൽ ഈ ഉപകരണം ഓടിക്കുന്നത് നല്ലതാണ് അതിനാൽ അത് റിട്ടേൺ റെയിലിലാണെങ്കിൽ അല്ലെങ്കിൽ മുകളിലെ റെയിലിൽ സൂക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന്റെ അടിത്തറയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ഒരു PNP ട്രാൻസിസ്റ്ററോ P ഉപകരണമോ ഉപയോഗിക്കാം ഇപ്പോൾ ഞാൻ സർക്യൂട്ടിന്റെ ഒരു സിംബൽ ബ്ലോക്കുകൾ കാണിക്കട്ടെ അവ എല്ലാം ഈ പ്രത്യേക ഗ്രൌണ്ടിലേക്ക് റഫർ ചെയ്യപ്പെടും ഇപ്പോൾ ഞാൻ ഈ BJT നെ ഒരു PNP തരം ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുന്നു എന്ന് പറയാം ഞങ്ങൾക്ക് ഇതുപോലുള്ള ഒരു BJT ഉണ്ടായിരിക്കാം PNP ബെയിസ് നമുക്ക് ഇതുപോലെ ഒരു ചെറിയ റെസിസ്റ്റർ ഡ്രൈവ് ഉണ്ടെന്നും അത് പുറത്തെടുക്കാമെന്നും പറയാം ഇപ്പോൾ ഈ ഗേറ്റ് ഡ്രൈവ് ഒരു സാധാരണ മോഡുലേറ്ററിൽ നിന്ന് വരാം ഇപ്പോൾ സ്റ്റാൻഡേർഡ് മോഡുലേറ്ററുകൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് വിപണിയിൽ ലഭ്യമാണ് ഉദാഹരണത്തിന് TL494 ഒരു സാധാരണ മോഡുലേറ്ററാണ് ഇതിന് സാധാരണയായി 10 മുതൽ 12 രൂപ വരെയാണ് ഇത് PWM സൃഷ്ടിക്കും നിങ്ങൾ അതിന് ഒരു സപ്ലൈയും നൽകണം അതിന് ഒരു ഗ്രൌണ്ട് ഉണ്ടായിരിക്കണം ഞാൻ ഇത് ഗ്രൌണ്ടായി തിരഞ്ഞെടുത്തുവെന്ന് നമുക്ക് പറയാം നിങ്ങൾ അതിനെ ആ ഗ്രൌണ്ടിലേക്ക് റഫർ ചെയ്യുക അതിനാൽ നിങ്ങൾക്ക് ഇപ്പോഴും മറുവശത്തെ ഗ്രൌണ്ടുമായി ഒരു ലിങ്കും ഇല്ല ഇപ്പോൾ റെഗുലേറ്ററിന്റെ ഔട്ട്പുട്ട് തന്നെ സപ്ലൈ ആകാം DC DC കൺവെർട്ടറിന്റെ ഔട്ട്പുട്ട് തന്നെ സപ്ലൈ ആകാം DC Dc കൺവെർട്ടറിന്റെ ഔട്ട്പുട്ട് നിയന്ത്രിക്കപ്പെടുന്നില്ല എന്ന ചോദ്യം ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം അതിനാൽ PWM IC ആയ TL494 തരത്തിലുള്ള ഉപകരണങ്ങളുടെ വിതരണമായി ഇതിന് പ്രവർത്തിക്കാനാകുമോ നിങ്ങൾക്ക് ഒരു PWM IC നായി മാർക്കറ്റിൽ ചോദിക്കാം ഇത്തരത്തിലുള്ള മിക്ക PWM IC കൾക്കും നിങ്ങൾക്ക് മറ്റൊരു പേര് ഉണ്ട് എനിക്ക് SG 3524 എന്ന് പറയാം ഇത് വളരെ ചെലവേറിയ ഒരു PWM IC കൂടിയാണ് അവയ്ക്ക് വളരെ വലിയ വിതരണ വോൾട്ടേജ് ശ്രേണിയുണ്ട് ആ TL 494 8 വോൾട്ടിൽ നിന്ന് 30 വോൾട്ടിലേക്കും അതുപോലെ തന്നെ SG 3524 ആയാലും അതായത് ഈ PWM IC കൾക്ക് അവയുടെ Vcc ക്ക് അനിയന്ത്രിതമായ വോൾട്ടേജ് എടുക്കാം അതിനാൽ ഇത് ഒരു PWM നൽകും അത് ഈ പ്രത്യേക ഉപകരണത്തെ ഓൺ ചെയ്യുകയും ഓഫ് ചെയ്യുകയും ചെയ്യും കൂടാതെ മിക്ക I C കളിലും അവയ്ക്ക് ഇൻബിൽറ്റ് ഇന്റേണൽ OpAmps ഉണ്ട് അവ താരതമ്യപ്പെടുത്തുന്നവയായും ഡിഫറൻസ് ആംപ്ലിഫയറായും കൂടാതെ PI കൺട്രോളറുകളായും പ്രവർത്തിക്കാൻ കഴിയും ഇതുപോലുള്ള വളരെ ലളിതമായ സർക്യൂട്ട് ടോപ്പോളജി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു OP amp ഉപയോഗിച്ച് ഒരു PI കൺട്രോളർ നിർമ്മിക്കാൻ കഴിയും എനിക്ക് ഗ്രൌണ്ട് ഉണ്ടായിരിക്കട്ടെ ഇതൊരു റെസിസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് ഔട്ട്പുട്ടിലും പ്രധാന വിതരണത്തിലും ഉടനീളം ഒരു കപ്പാസിറ്റൻസ് ഉണ്ടെന്നും നിങ്ങൾക്ക് ഇവിടെ ഒരു എറർ വരുന്നുണ്ടെന്നും പറയാം ഇപ്പോൾ ഇതൊരു ഇന്റഗ്രേറ്ററാണ് ഈ ഇന്റഗ്രേറ്റർ ഞാൻ നിയന്ത്രിക്കുന്നത് പോലെയാണ് കൂടാതെ ഈ കൺട്രോളറിന് ആനുപാതികമായ ഒരു ഭാഗം ഉൾപ്പെടുത്തി നിങ്ങൾക്ക് ഒരു PI കൺട്രോളർ നിർമ്മിക്കാനും കഴിയും അതിനാൽ നിങ്ങൾക്ക് ഒരു ആനുപാതികവും ഇന്റഗ്രൽ കൺട്രോളറും ഉണ്ട് ഇതൊരു PI കൺട്രോളർ ആയിരിക്കും അതിനാൽ ഞങ്ങൾക്ക് ഒരു OpAmp ഉള്ളതിനാൽ സാധാരണയായി 1 മുതൽ 2 OpAmps വരെ ഈ PWM IC കൾ ലഭ്യമാണ് അതിനാൽ ഒരു OpAmp ഒരു കൺട്രോളർ ആകാം ഒരു OpAmp ഒരു ഡിഫറൻസ് ആംപ്ലിഫയർ ആകാം അതിനാൽ നിങ്ങൾ കൺട്രോളറിലേക്ക് വോൾട്ടേജിൽ ഫീഡ് ചെയ്യുകയും ഉചിതമായ പിന്നുകളിലേക്ക് ആന്തരിക op amps ഉപയോഗിക്കുകയും ചെയ്യുക അതിൽ നിന്ന് വ്യത്യാസം നോക്കുമ്പോൾ എറർ ഒന്നും ഇല്ലാണ്ടാവുകയും അങ്ങനെ ഒരു PI കോൺട്രോളർ ഉണ്ടാവുകയും ചെയ്യും അത് ഔട്ട്പുട്ട് ആണ് അത് ഒരു ഇന്റേണൽ PWM ലേക്ക് നൽകി ടൈമിംഗ് റെസിസ്റ്ററുകളുടെയും കപ്പാസിറ്ററുകളുടെയും സഹായത്തോടെ കൺവെർട്ടറിന്റെ ഈ ബക്ക് ഭാഗത്തിന് നിങ്ങളുടെ സ്വിച്ചിംഗ് ഫ്രീക്വൻസിയുടെ ഫ്രീക്വൻസി ക്രമീകരിക്കാനുള്ള സൌകര്യമുണ്ട് ഇവ പ്രാദേശിക PWM IC യുടെ Rt Ct ആയിരിക്കും ഇപ്പോൾ ഈ PWM IC ഈ PWM IC യെ റഫർ ചെയ്യുന്നു മറ്റേതെങ്കിലും ഗ്രൌണ്ട് ഇതിലേക്ക് റഫർ ചെയ്യപ്പെടുന്നു ഈ ബക്ക് റെഗുലേറ്ററിലേക്കുള്ള ഇൻപുട്ടിന്റെയും ഔട്ട്പുട്ട് തന്നെയാണ് ഇത് ഇതിനുള്ളിലുള്ള കൺട്രോളറിൽ നിന്ന് പുറത്തുവരുന്നു നിങ്ങൾ ഈ സെൻസ്ഡ് ഔട്ട്പുട്ട് ഇവിടെ നൽകുന്നു അതിനാൽ ഈ ഭാഗം ഞാൻ ഇവിടെ മൌസ് ഉപയോഗിച്ച് കാണിക്കുന്ന ഈ പച്ച ഭാഗം പൂർണ്ണമായ ഞങ്ങൾ ഇതുവരെ ചർച്ച ചെയ്തതും സിമുലേറ്റ് ചെയ്തതുമായ ക്ലോസ്ഡ് ലൂപ്പ് ബക്ക് റെഗുലേറ്ററാണ് ഇപ്പോൾ ലീനിയർ റെഗുലേറ്ററിന് പകരം ഈ ബക്ക് റെഗുലേറ്ററിന് അത് മാറ്റിസ്ഥാപിക്കാൻ കഴിയും തുടർന്ന് ഇത് തീർച്ചയായും മികച്ച കാര്യക്ഷമത കൈവരിക്കും കാരണം ഓൺ സ്റ്റേറ്റ് ഡ്രോപ്പുകൾ ഒഴികെ ഇത് പരസ്പരം പോസ് ചെയ്യില്ല ഇതിന്റെ കാര്യക്ഷമത ലീനിയർ റെഗുലേറ്ററിനേക്കാൾ വളരെ കൂടുതലായിരിക്കും അതിനാൽ മൾട്ടി ഔട്ട്പുട്ട് കൺവെർട്ടറുകളിൽ റെഗുലേറ്ററായി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നോൺ ഐസൊലേറ്റഡ് റെഗുലേറ്ററുകളിൽ ഒന്നായ നോൺ ഐസൊലേറ്റഡ് DC DC കൺവെർട്ടറുകൾ ഉപയോഗിക്കാം അതിനാൽ മൾട്ടി ഔട്ട്പുട്ട് കൺവെർട്ടറിന്റെ എല്ലാ ഔട്ട്പുട്ടുകളും നിയന്ത്രിച്ച് നിങ്ങൾക്ക് ശരിയായതും പ്രതീക്ഷിക്കുന്നതുമായ ഔട്ട്പുട്ടുകൾ നൽകും